ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ഉൽഭവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് മനുഷ്യൻറെ സൃഷ്ടിപരതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏഷ്യൻ സംസ്കാരത്തെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏഷ്യൻ സംസ്കാരത്തിൽ മനുഷ്യൻറെ സൃഷ്ടിപരത എന്ന ഒരു ഘടകം നിലനിന്നിരുന്നില്ല എന്നാണ് അങ്ങനെ മനുഷ്യൻറെ സൃഷ്ടിപരതയെ ആരും അത്ര ബഹുമാനത്തോടെ വീക്ഷിച്ചിരുന്നില്ല അത് എന്തെങ്കിലും വിധത്തിലുള്ള അംഗീകാരം അർഹിക്കുന്നതാണ് എന്ന് ആരും കരുതിയിരുന്നില്ല സൃഷ്ടിപരത എന്നത് ദൈവത്തോട് മാത്രം ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു ഘടകം ആയാണ് കരുതി വന്നിരുന്നത് പ്രാചീന സംസ്കാരത്തിൽ കല അല്ലെങ്കിൽ കലാസൃഷ്ടി ഒരു കണ്ടുപിടുത്തം ആയാണ് കണക്കാക്കി വരുന്നത് അല്ലാതെ ഒരു വ്യക്തിയുടെ സൃഷ്ടിപരതയായി കണക്കാക്കിയിരുന്നില്ല അതുകൊണ്ട് കല ഒരു കണ്ടുപിടുത്തമാണ് കണ്ടു പിടുത്തം എന്നത് ഒരു സൃഷ്ടിയല്ല അപ്പോൾ പ്രാചീന സംസ്കാരത്തിൽ മനുഷ്യൻ ഒന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല മറിച്ച് അവർ കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി രൂപാന്തരപ്പെടുകയാണ് അതുകൊണ്ട് കലയെ ഒരുതരം അനുകരണം മാത്രമായാണ് കണക്കാക്കിയിരുന്നത് അനുകരണം വരുന്നത് കണ്ടുപിടുത്തത്തിലൂടെയാണ് ഇവിടെ അതിൻറെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ദൈവം മാത്രമാണ് സൃഷ്ടികർത്താവ് മറ്റെല്ലാ ചരാചരങ്ങളും സൃഷ്ടികൾ മാത്രമാണ് അപ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ ഉണ്ട് സ്രഷ്ടാവും ഉണ്ട് മനുഷ്യൻറെ ഒരു സൃഷ്ടിപരതയും ഇതിനോട് കിടപിടിക്കാവുന്നതല്ല കാരണം മനുഷ്യൻറെ സൃഷ്ടിപരതയെ ഒരു അനുരൂപണമോ അനുകരണമോ മാത്രമായാണ് കരുതിപ്പോരുന്നത് ഇത്തരത്തിലുള്ള ശ്വാസംമുട്ടിക്കുന്ന ഒരു അവസ്ഥ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ നിയമത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും പേറ്റന്റ് ലോയിൽ പേറ്റന്റ് ലോയിൽ കണ്ടുപിടുത്തം ആണോ സൃഷ്ടിയാണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നമാണ് കണ്ടുപിടിത്തങ്ങളെ ഒരിക്കലും സൃഷ്ടിയായി കരുതാറില്ല കണ്ടുപിടിത്തം എന്നുപറഞ്ഞാൽ അതുവരെ മറഞ്ഞിരുന്ന ഒരു സംഗതിയെ വെളിച്ചത്തു കൊണ്ടുവന്നു എന്ന് മാത്രമേ ആകുന്നുള്ളൂ അതൊരിക്കലും പുതിയ സൃഷ്ടി ആകുന്നില്ല പുതിയ ഒരു സാധനം സൃഷ്ടിച്ചെടുക്കലാകുന്നില്ല പ്രാചീന സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന ഈ ഈ ഒരു ആശയം ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലും തർക്ക വിഷയം തന്നെയാണ് സൃഷ്ടിപരതയെ പരിശോധിക്കുമ്പോൾ രണ്ടു വിശാലമായ ചിന്താ രീതികളെ നമുക്ക് കാണാം ഒന്ന് മതങ്ങൾ മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു സൃഷ്ടിപരത എന്നത് ദൈവത്തിൻറെ മാത്രം പ്രത്യേകത ഗുണമാണെന്ന് എന്നാൽ നവോത്ഥാനകാലത്ത് അത് തിരിച്ച് വ്യക്തികൾക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങി അപ്പോൾ നമ്മൾ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു മാതൃകയെ പിന്തുടരുവാനും സൃഷ്ടിപരത എന്നത് ദൈവത്തിൻറെ മാത്രം പ്രത്യേക ഗുണമല്ല എന്ന് പറയുവാനും തുടങ്ങി വ്യക്തികൾക്കും സൃഷ്ടിപരത ഉണ്ട് എന്നും അത് ആ വിധത്തിൽ കണക്കാക്കണമെന്നും ചിന്തിക്കാൻ തുടങ്ങി മനുഷ്യ കേന്ദ്രീകൃതമായ ബൌദ്ധിക നീക്കത്തിൽ ഭാവനയായിരുന്നു അതിൻറെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത് അസാമാന്യ പ്രതിഭാശാലിയായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ ഭാവന അഥവാ കൽപനാശക്തിയുള്ള അതും വളരെ ആകർഷകമായ ഭാവനാ ശക്തിയുള്ള വ്യക്തി ആയിട്ടാണ് കരുതുന്നത് അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഒരു അസാധാരണ വ്യക്തി ആകണമെങ്കിൽ അദ്ദേഹം അസാധാരണ പ്രതിഭയുള്ള ഭാവനയുള്ള ആകർഷകമായ ഭാവനാശക്തിയുള്ള വ്യക്തി ആയിരിക്കണം ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ചർച്ചകളിൽ ഇത് നമ്മൾ കാണാറുണ്ട് അതായത് ഇയാൾ ഒരു ഇൻവെൻന്റർ എന്ന് പറയുന്നത് അസാധാരണ പ്രതിഭയുടെ തീപ്പൊരി ഉള്ളിലുള്ള ആളാണ് എന്നാൽ ഒരു വ്യക്തി ഏതെങ്കിലും പ്രത്യേക കലയിൽ സിദ്ധികൾ ഉള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാധാരണ സിദ്ധികളുള്ള അല്ലെങ്കിൽ കഴിവുകൾ ഉള്ള വ്യക്തി മാത്രമാകുന്നു അപ്പോൾ എങ്ങനെയാണ് പേറ്റന്റ് ലോയിൽ സാധാരണ കഴിവുകളുള്ള ആളുകളെയും അസാധാരണ പ്രതിഭാശാലികളും വേർതിരിക്കുന്നത് അവർ നോക്കുന്നത് ഈ വ്യക്തി ഏതെങ്കിലും ഇൻവെൻഷനുമായി അഥവാ നവസൃഷ്ടിയുമായി വരുന്നുണ്ടോ എന്നാണ് കഴിവുകൾ ഉള്ള വ്യക്തിക്ക് ഒരു പുതിയ സൃഷ്ടി നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പേറ്റന്റ് ലോ അതിനെ ഒരു സൃഷ്ടിയായോ അല്ലെങ്കിൽ ഒരു സൃഷ്ടിയിലേക്ക് നയിക്കുന്ന ചുവടുവെപ്പായോ കരുതിക്കൊണ്ട് ഒരു പ്രതിഭാശാലിയുടെ സംഭാവനക്ക് തുല്യമായി അതിനെ കരുതുകയാണ് മനുഷ്യൻറെ സൃഷ്ടിപരത മനുഷ്യൻറെ ഭാവന ശക്തിയോട് ബന്ധപ്പെട്ടിരിക്കുന്നതായും മനുഷ്യൻറെ ഭാവനശക്തി അയാളുടെ പ്രതിഭയുടെ പ്രവർത്തനം ആയും കരുതുന്നു വിഷയ വ്യാപ്തിയിലും പ്രവർത്തന മേഖലയിലും വ്യത്യാസം വരുത്തുവാൻ സാധിക്കുന്ന സംഭാവനകളാണ് സൃഷ്ടിപരതയോട് തുല്യം ചെയ്തിരുന്നത് പ്രവർത്തന മേഖലയിലും വിഷയ വ്യാപ്തിയിലും വ്യത്യാസം വരുത്തുന്ന സംഭാവനകൾ അറിവിലും വളരെ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നു സൃഷ്ടിപരതയെക്കുറിച്ച് പല സിദ്ധാന്തങ്ങൾ ഉണ്ട് മനശാസ്ത്രത്തിലും ബൌദ്ധിക സയൻസിലും സിദ്ധാന്തങ്ങൾ ഉള്ളതുപോലെ ഭാവനയാണ് പുതിയ ആശയ രൂപീകരണത്തിലേക്ക് നയിക്കുന്നത് ആശയങ്ങൾ പ്രവർത്തനക്ഷമമാകുന്ന വഴികളെ സങ്കൽപ്പിക്കാനും മുൻകൂട്ടി പറയുവാനും അവയെ നിലനിൽക്കുന്ന ആശയങ്ങളോട് കൂട്ടി ഘടിപ്പിക്കുവാനും സാധിക്കുന്നു അപ്പോൾ നിലവിലിരിക്കുന്ന ഘടകങ്ങളോട് ബന്ധപ്പെടുത്തി പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് ഭാവനാശക്തി അല്ലെങ്കിൽ കൽപ്പനാശക്തി പല പുതിയ സൃഷ്ടികളും നടത്തിയിട്ടുള്ള വലിയ ശാസ്ത്രജ്ഞന്മാർ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് ഇത് ചെയ്യാൻ സാധിച്ചത് വലിയ വലിയ പ്രതിഭാശാലികളുടെ തോളുകളിൽ നിൽക്കാൻ സാധിച്ചുതുകൊണ്ടാണെന്ന് അതായത് വലിയ പ്രതിഭാധനന്മാർ മുൻകാലങ്ങളിൽ ചെയ്തു വെച്ചതാണ് തൻറെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമെന്ന് ഈ നിയമം ഐസക് ന്യൂട്ടനോട് ബന്ധിപ്പിച്ചുള്ളതാണ് അതായത് നമ്മുടെ എല്ലാ അറിവുകളും നമ്മുടെ എല്ലാ സൃഷ്ടിപരതയും നിലനിൽക്കുന്ന അറിവുകളിൻമേലുള്ള ഒരു പടുത്തുയർത്തലായി കണക്കാക്കേണ്ടിയിരിക്കുന്നു സൃഷ്ടിപരതയെ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ കാഴ്ചപ്പാടിൽ നിന്നും വീക്ഷിക്കുമ്പോൾ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് മനുഷ്യൻറെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഉൽഭവിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യൻറെ സൃഷ്ടിപരതയെ വീക്ഷിക്കുമ്പോൾ ആ സൃഷ്ടിപരത തന്നെ മനുഷ്യൻ എങ്ങനെ നിലനിൽക്കുന്ന അറിവുകളോട് കൂട്ടിച്ചേർക്കലുകൾ നടത്തി എന്നതും ആയി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് എങ്ങനെ സൃഷ്ടിപരത നിലനിൽക്കുന്ന അറിവുകളിന്മേൽ കൂട്ടിച്ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി എന്നു പറയുന്നത് നിലനിൽക്കുന്ന ഒന്നിനോട് നടത്തുന്ന കൂട്ടിച്ചേർക്കലുകൾ ആണ് പ്രശ്നപരിഹാരത്തിന് സൃഷ്ടിപരതയ്ക്ക് ഒരു പങ്ക് വഹിക്കാനുണ്ട് സൃഷ്ടിപരത എന്നത് ബുദ്ധിയെ അതിലംഘിക്കുന്ന ഒന്നാണ് മനസ്സിൻറെ വ്യായാമം അവസാനമൊരു തനതായ ആശയത്തിൽ എത്തിനിൽക്കുമ്പോൾ ആ തനതായ ആശയം നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന് അതുവരെ അറിവില്ലാതിരുന്ന ഒരു പ്രശ്നപരിഹാരമായി ഭവിക്കുന്നു അതിനെ നമ്മൾ പറയും പ്രശ്നപരിഹാരത്തിനുള്ള നമ്മുടെ സർഗാത്മകത അല്ലെങ്കിൽ സൃഷ്ടിപരത എന്ന് അപ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള നമ്മുടെ സർഗാത്മകതയെ അല്ലെങ്കിൽ സൃഷ്ടിപരതയെ നമ്മൾ വീണ്ടും സർഗ്ഗാത്മകത എന്ന് വിളിക്കുന്നു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട് ഒരു പുതിയ നിർമ്മിതിയുടെ ഗുണം എന്തെന്ന് വച്ചാൽ അത് തനതായിരിക്കണം നിലനിൽക്കുന്ന അഥവാ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നത്തിന് അത് പരിഹാരമായി ഭവിക്കണം ഇങ്ങനെയാണ് സർഗാത്മകതയും സൃഷ്ടിപരതയും ഒറിജിനാലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഒറിജിനൽ അതായത് തനിമയുള്ള വസ്തുക്കൾ ഉണ്ട് നോവൽ ആയിട്ടുള്ള അതായത് അത് പുതുമയുള്ള വസ്തുക്കളും ഉണ്ട് ഒറിജിനാലിറ്റി അഥവാ തനിമ കോപ്പിറൈറ്റിന് വളരെ ആവശ്യമാണ് കോപ്പിറൈറ്റ് വ്യവസ്ഥ കോപ്പിറൈറ്റ് ചെയ്യപ്പെട്ടവ ഒറിജിനൽ ആയിരിക്കണം അഥവാ തനിമയുള്ളതായിരിക്കണം എന്ന് അനുശാസിക്കുന്നു എന്നാൽ പേറ്റന്റ് നിയമത്തിൽ അവ നോവൽ ആയിരിക്കണം അഥവാ പുതുമയുള്ളതായിരിക്കണം എന്നാണ് അനുശാസിക്കുന്നത് അപ്പോൾ പേറ്റന്റ് ലോ ഇൻവെൻഷൻസ് പുതുമയുള്ളതായിരിക്കണമെന്ന് അനുശാസിക്കുമ്പോൾ കോപ്പിറൈറ്റ് ലോ സൃഷ്ടികൾ ഒറിജിനൽ ആയിരിക്കണമെന്ന് അനുശാസിക്കുന്നു കോപ്പിറൈറ്റും പേറ്റന്റും ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ രണ്ട് ശാഖകളാണ് അപ്പോൾ പുതുമയുള്ള ഒരു പരിഹാരം ഒരുപക്ഷേ ഒരു പുതുമയുള്ള പ്രവർത്തി ആകാം അല്ലെങ്കിൽ അതൊരു പുതിയ സൃഷ്ടിയാകാം പുതുമ എന്നത് വളരെ വിശാലമായ ഒരു വാക്കാണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇൻവെൻഷൻ ആണ് പുതിയ നിർമ്മിതിയാണ് കാരണം പേറ്റന്റ്സ് പുതിയ നിർമിതികളെ സംരക്ഷിക്കുന്നു എല്ലാ നൂതനമായ പരീക്ഷണങ്ങളെയും അവ സംരക്ഷിക്കുന്നു എന്നർത്ഥമില്ല ഇത്രയേ അർത്ഥം ആക്കുന്നുള്ളൂ പുതിയ നിർമ്മിതികൾ പേറ്റന്റ്സ് വഴി സംരക്ഷിക്കുവാൻ സാധിക്കും നിർമ്മിതികളാണ് അഥവാ സൃഷ്ടികളാണ് പേറ്റന്റ് ലോയുടെ പരിധിയിൽ വരുന്ന വിഷയം നമ്മൾ പ്രശ്നപരിഹാര രീതിയിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭാവാത്മകതയും സർഗാത്മകതയും പ്രശ്നപരിഹാരത്തിനുള്ള നടപടിക്രമങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നു പരിഹാരമെന്ന് പറയുന്നത് വളരെ സർഗാത്മകം ആയിരുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ അതിനെ ഇന്നൊവേഷൻ എന്ന് വിളിക്കും നമ്മൾ ഒരു പ്രശ്നത്തെ ഭാവാത്മകമായ രീതിയിലാണ് പരിഹരിക്കുന്നതെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളെയും മൊത്തത്തിൽ നമ്മൾ പ്രോസസ്സ് ഓഫ് ഇന്നൊവേഷൻ എന്ന് വിളിക്കുന്നു